എൻജിനീയറിങ് മാത്തമാറ്റിക്സ് I എന്ന കോഴ്സിന്റെ ലക്ച്ചറുകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ലക്ച്ചർ നമ്പർ 13 ആണ് ഇന്ന് നമ്മൾ വീണ്ടും രണ്ടു വേരിയബിളുകളുള്ള ഫംഗ്ഷന്റെ ഡിഫറെൻഷ്യബിലിറ്റിയെ കുറിച്ച് സംസാരിക്കും അടിസ്ഥാനപരമായി നമ്മൾ ഡിഫറെൻഷ്യബിലിറ്റി കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ലിമിറ്റ് ടെസ്റ്റിലൂടെ ഒന്ന് പോകും അത് ഒന്നിൽ കൂടുതൽ വേരിയബിളുകളുള്ള ഫംഗ്ഷന്റെ ഡിഫറെൻഷ്യബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ് കൂടാതെ ഈ ലക്ച്ചറിൽ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ ചെയ്ത് സോൾവ് ചെയ്യുകയും ചെയ്യും അപ്പോൾ മുമ്പത്തെ ലക്ച്ചറിൽ നിന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകം രണ്ട് വേരിയബിളുകളുള്ള ഫംഗ്ഷന്റെ ഡിഫറെൻഷ്യബിലിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിച്ചത് എന്തെന്നാൽ ഒരു ഫംഗ്ഷൻ z ഒരു പോയിന്റ് x y ൽ ഡിഫറെൻഷ്യബിൾ ആണെന്ന് പറയുന്നത് ആ പോയിന്റിൽ x Δx ആയും y Δy ആയും മാറ്റുമ്പോൾ നമുക്ക് z ലെ വ്യതിയാനമായ Δz പ്രകടിപ്പിക്കാനാവുമ്പോഴാണ് അപ്പോൾ Δx ൻറെയും Δy യുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് Δz പ്രകടിപ്പിക്കാനാകുമെങ്കിൽ a ഗുണനം Δx b ഗുണനം Δy അതൊരു ലീനിയർ പദമാണ് A ഉം b ഉം Δx ൽ നിന്നും Δy ൽ നിന്നും സ്വതന്ത്രവുമാണ് അതിലേക്ക് ϵ1Δx ϵ2Δy ഇവിടെ Δx ഉം Δy ഉം പൂജ്യത്തിലേക്ക് പോകുമ്പോൾ എപ്സിലോൺ ഒന്നും എപ്സിലോൺ രണ്ടും പൂജ്യത്തിലേക്ക് പോവണം Δza Δxb Δyϵ1 Δxϵ2 Δy അപ്പോൾ നമ്മൾ പഠിച്ചതിൽ അനിവാര്യമായ നിബന്ധനകൾ എന്തൊക്കെയാണെന്നാൽ f ൻറെ കണ്ടിന്യൂയിറ്റി ഡിഫറൻഷ്യബിലിറ്റിക്ക് അനിവാര്യമാണ് മാത്രമല്ല ഭാഗികമായ ഡെറിവേറ്റീവുകളായ fx ന്റെയും fy യുടെയും നിലനിൽപ്പ് ഡിഫറെൻഷ്യബിലിറ്റിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് ഒരു ഡെറിവേറ്റീവിന്റെയോ അല്ലെങ്കിൽ ഈ രണ്ട് ഭാഗിക ഡെറിവേറ്റീവുകളുടെയോ കണ്ടിന്യൂയിറ്റി രണ്ട് വേരിയബിളുകളുള്ള ഫംഗ്ഷന്റെ ഡിഫറൻഷ്യബിലിറ്റി നിർവ്വചിക്കാൻ പര്യാപ്തമായ സാഹചര്യമാണ് അപ്പോൾ നമ്മൾ കണ്ടത് എന്തെന്നാൽ ഡിഫറെൻഷ്യബിലിറ്റി തെളിയിക്കാൻ വേണ്ടി ഒന്നുകിൽ നമുക്ക് ഈ പര്യാപ്തമായ സാഹചര്യം ഉപയോഗിക്കാം അപ്പോൾ ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഭാഗിക ഡെറിവേറ്റീവ് കണ്ടിന്യുവസ് ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെന്ന് വാദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഈ നിർവചനം നേരിട്ട് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ Δz Δx ന്റെയും Δy യുടെയും അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കണം എങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെന്ന് വാദിക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ഡിഫറെൻഷ്യബിലിറ്റി തെളിയിക്കാനായി ഉപയോഗിക്കുന്ന ഇവിടെയുള്ള പ്രയോഗത്തിന് തതുല്യമായ മറ്റൊരു മാർഗമാണ് പഠിക്കുന്നത് അത് ലിമിറ്റ് ടെസ്റ്റാണ് ഇവിടുത്തെ ഡിഫറെൻഷ്യബിലിറ്റി ഇവിടുത്തെ ലിമിറ്റ് Δρ √Δx2Δy2 ന് തുല്യമാണെന്ന് പറയുന്നതിന് സമാനമാണ് എന്ന് ഇനി നമ്മൾ കാണിക്കും നമ്മൾ ഇവിടെയുള്ള പ്രയോഗമായ Δz dzΔρ0 യുടെ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻഷ്യബിലിറ്റി ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ലിമിറ്റ് പൂജ്യം ആണെന്നാണ് ലിമിറ്റ് 0 എന്നത് സൂചിപ്പിക്കുന്നത് ഡിഫറെൻഷ്യബിലിറ്റിയാണ് അപ്പോൾ ഇവ രണ്ടും ഡിഫറൻഷ്യബിലിറ്റി പരിശോധിക്കുന്നതിനുള്ള തുല്യ നിർവചനങ്ങളാണ് Differentiability ⟺ lim┬Δρ→0⁡〖Δz dzΔρ〗0 Δρ√Δx2Δy2 ഇനി നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെങ്കിൽ ലിമിറ്റ് പൂജ്യമായിരിക്കും എന്നുള്ളത് കാണിക്കാം അപ്പോൾ f ഡിഫറെൻഷ്യബിളാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് Δz എന്നുള്ളത് നമുക്ക് aΔx bΔy ϵ1Δx ϵ2Δy എന്നതായി പ്രകടിപ്പിക്കാവുന്നതാണ് ഇനി ഇത് നമ്മൾ ഡിഫറെൻഷ്യൽ എന്ന് വിളിക്കുന്ന dz പദമാണ് ഈ ഡിഫറെൻഷ്യൽ പദത്തെ നമ്മൾ ഇടതുവശത്തേക്ക് എടുക്കുകയും Δρ കൊണ്ട് ഹരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടെ √Δx2Δy2 എന്നായിട്ടാണ് നൽകിയിട്ടുള്ളത് ഇത് നമ്മൾ ഹരിക്കുകയാണെങ്കിൽ നമുക്ക് വലതുവശം ϵ ΔxΔρ ϵ ΔyΔρ എന്ന് ലഭിക്കും Δz dzΔρϵ1 ΔxΔρϵ2 ΔyΔρ ഇനി ഇവിടെ നമ്മൾ ലിമിറ്റ് Δx ഉം Δy ഉം പൂജ്യത്തിലേക്ക് പോകുന്നുവെന്നെടുക്കുകയാണെങ്കിൽ വലതുവശത്തെ മൂല്യം എന്തായിരിക്കും എന്നുള്ളത് നിരീക്ഷിക്കുക Δx ഉം Δy ഉം പൂജ്യത്തിലേക്ക് പോകുമ്പോൾ ഈ ϵ1 ഉം ϵ2 ഉം പൂജ്യത്തിലേക്ക് പോകും എന്ന് നമുക്ക് ഇതിനകം അറിയാം പക്ഷേ ഇവിടെ ϵ1 ൻറെ കൂടെ ഇരിക്കുന്ന പദം അതായത് ΔxΔρ ഉം ΔyΔρ ഉം അവ രണ്ടും പരിമിതമാണെന്ന് ഉറപ്പുവരുത്തണം ഇത് നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും കാരണം ഈ Δρ√Δx2Δy2 ആണ് അപ്പോൾ ഇവിടത്തെ പദം Δx നേക്കാൾ വലുതാണ് ഇവിടെ നമുക്ക് Δy2 ഉം ഉണ്ട് പിന്നെ ഒരു സ്ക്വയർ റൂട്ടും lim┬Δρ→0⁡〖Δz dzΔρ〗lim┬Δρ→0 ϵ1 ΔxΔρlim┬Δρ→0 ϵ2 ΔyΔρ0 അപ്പോൾ ഈ പദം തീർച്ചയായും Δx നേക്കാൾ വലുതാണ് അപ്പോൾ ഈ പദത്തിന്റെ മോഡുലസ് ΔxΔρ യുടെ കേവല സംഖ്യ 1 ൽ പരിമിതമാണ് സമാനമായി ΔyΔρ യുടെ കേവല സംഖ്യയും 1 ൽ പരിമിതമാണ് നമ്മൾ ലിമിറ്റ് Δρ→0 എടുക്കുകയാണെങ്കിൽ ഈ വശം പൂജ്യത്തിലേക്ക് പോകും കാരണം ϵ1 പൂജ്യത്തിലേക്ക് പോകും ϵ2 ഉം പൂജ്യത്തിലേക്ക് പോകും അപ്പോൾ ലിമിറ്റ് എടുക്കുമ്പോൾ ഈ രണ്ടു പദങ്ങളുടെയും പരിമിതി കാരണം നമുക്ക് കാണാനാകും Δρ പൂജ്യത്തിലേക്ക് പോകുമ്പോൾ ഈ ϵ1 ഉം ϵ2 ഉം പൂജ്യത്തിലേക്ക് പോകും എന്നുള്ള സവിശേഷത നമുക്കറിയാം ഇതിനർത്ഥം Δx പൂജ്യത്തിലേക്ക് പോകുമെന്നും Δy പൂജ്യത്തിലേക്ക് പോകുമെന്നുമാണ് Note that ΔxΔρ≤1 ΔxΔρ≤1 and ϵ1 ϵ2 tend to zero as Δρ→0 അപ്പോൾ ഈ കാര്യത്തിൽ ഈ പദങ്ങളുടെ പരിമിതി കാരണം ഈ ലിമിറ്റ് പൂജ്യം ആണെന്ന് നമുക്ക് തെളിയിക്കാനാകും അപ്പോൾ ഈ ലിമിറ്റ് ആണ് നമുക്ക് f ഡിഫറെൻഷ്യബിൾ ആണെങ്കിൽ ഇതും 0 ആവണമെന്ന് കാണിക്കേണ്ടതായിട്ടുള്ളത് ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ നോക്കാം അതായത് ഈ ലിമിറ്റ് 0 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ പൂജ്യം ആണെന്ന് നമുക്ക് കാണിക്കാനാകും ഇനി ഇവിടെ ലിമിറ്റ് പൂജ്യം ആണെന്ന് വെക്കുക ഇനി നമ്മൾ മുമ്പത്തെ ലക്ച്ചറിൽ ഉപയോഗിച്ച വസ്തുത ഇവിടെയും ഉപയോഗിക്കും അതായത് ഈ ലിമിറ്റ് 0 ഇനി നമുക്ക് ഒരു എപ്സിലൺ ഇവിടെ ചേർക്കാം അപ്പോൾ ഈ പദം മൈനസ് 0 അതിവിടെ പൂജ്യമാണ് അപ്പോൾ ഈ പദം എപ്സിലണിന് തുല്യമാണ് ഇനി ലിമിറ്റ് Δρ→0 Δx Δy→0 എടുക്കുകയാണെങ്കിൽ ഈ എപ്സിലൺ പൂജ്യത്തിലേക്ക് പോകണം കാരണം ഇതിന്റെ ലിമിറ്റ് പൂജ്യമാണ് അതിനാൽ എപ്സിലൺ പൂജ്യത്തിലേക്ക് പോകണം ഇവിടെ നമ്മൾ ലിമിറ്റ് Δρ→0 ആയിട്ട് എടുക്കുന്നു lim┬Δρ→0⁡ Δz dzΔρ 0 Δρ√Δx2Δy2 Let lim┬Δρ→0⁡Δz dzΔρ0 ⟹ Δz dzΔρϵ ϵ→0 as Δρ→0 അപ്പോൾ ഈ കേസിൽ Δρ പൂജ്യത്തിലേക്ക് പോകുമ്പോൾ എപ്സിലൺ പൂജ്യത്തിലേക്ക് നിർബന്ധമായും പോകണം എന്നുള്ള ഒരു സവിശേഷതയുണ്ട് ഇനി നമ്മൾ ഈ പദം വലതുവശത്തേക്ക് എടുക്കുകയാണെങ്കിൽ അപ്പോൾ Δz dzϵΔρ എന്നാവും ഇനി ϵΔρ യിൽ √Δx2Δy2 പകരം ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ √Δx2Δy2 എന്നത് കൊണ്ട് ഹരിക്കുകയും ഇതേ പദം കൊണ്ട് ഗുണിക്കുകയും ചെയ്യാം ⟹ Δz dzϵ Δρϵ √Δx2Δy2 ϵ Δx2Δy2√Δx2Δy2 ഇവിടെയുള്ള ഈ പ്രയോഗം ലഭിക്കാൻ ϵΔx2Δy2 നെ ഇവിടെയുള്ള സ്ക്വയർ റൂട്ട് കൊണ്ട് ഹരിക്കുക ഇനി നമുക്ക് ഇത് രണ്ടു ഭാഗങ്ങളായി പിളർത്താം ഒരു എപ്സിലണും Δx ഉം ഈ ഒരു പദം കൊണ്ട് ഹരിച്ചതും അടുത്തത് Δx ഇവിടെ പ്രൊഡക്ട് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് വീണ്ടും ഇതേ ആശയം വെച്ച് തന്നെ എപ്സിലണിന്റെ കൂടെ ഒരു Δy ഉം അത് ഈ പദം √Δx2Δy2 കൊണ്ട് ഹരിക്കുകയും ചെയ്യുക ϵ Δx√Δx2Δy2 Δxϵ Δy√Δx2Δy2 Δy അപ്പോൾ ഇനി നമുക്ക് കാണാനാവുന്നത് എന്തെന്നാൽ z ലുള്ള Δz വ്യതിയാനം നമുക്ക് dz എന്ന് എഴുതാം അതിലേക്ക് ϵ1 കൂട്ടാം അപ്പോൾ ഇതാണ് ϵ1 Δxϵ2 Δy പക്ഷേ ഈ dz വലതുവശത്തേക്ക് പോകുമ്പോൾ ഇത് ϵ1 പദവും ഇത് ϵ2 പദവുമാകും അവക്ക് നമ്മൾ ഇപ്പോൾ പഠിച്ചത് പോലെ പൂജ്യത്തിലേക്ക് പോകുമെന്നുള്ള സവിശേഷതയുണ്ട് ⟹ Δzdzϵ1 Δxϵ2 Δy ⟹ Differentiability of f അപ്പോൾ ഇത് പൂജ്യത്തിലേക്ക് പോകും ഇതും പൂജ്യത്തിലേക്ക് പോകും നമ്മൾ ഈ Δz പദം dzϵΔx ϵΔy എന്നായിട്ടാണ് എഴുതിയിരുന്നത് അപ്പോൾ ഇതാണ് ഡിഫറെൻഷ്യബിലിറ്റിയുടെ നിർവചനം നമ്മൾ ഇവിടെ കണ്ടെത്തിയത് ഡിഫറെൻഷ്യബിലിറ്റിക്ക് തുല്യമായിട്ടുള്ള ഒരു നിർവചനമാണ് അതായത് ഡിഫറെൻഷ്യബിലിറ്റി സൂചിപ്പിക്കുന്നത് ഈ ലിമിറ്റ് പൂജ്യത്തിനു തുല്ല്യമാവണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ലിമിറ്റ് പൂജ്യത്തിന് തുല്യമാണെങ്കിൽ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആയിരിക്കുന്നതാണ് അപ്പോൾ ഡിഫറെൻഷ്യബിലിറ്റി പരിശോധിക്കാൻ ഈ ലിമിറ്റ് ഉപയോഗിച്ചുള്ള നിർവ്വചനം ഉപയോഗിക്കാവുന്നതാണ് കാരണം ഈ ലിമിറ്റ് ലഭിക്കുക എന്നുള്ളത് ഈ Δz dz ന്റെയും ϵΔxΔy പദത്തിന്റെയും രൂപത്തിൽ പ്രകടിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അതു കൊണ്ടു തന്നെ മിക്ക സമയങ്ങളിലും ഫംഗ്ഷന്റെ ഡിഫറെൻഷ്യബിലിറ്റി തെളിയിക്കാൻ ഈ നിർവചനമാകും നിങ്ങൾ ഉപയോഗിക്കുക കാരണം ഇത് ഡിഫറെൻഷ്യബിലിറ്റിയുടെ മറ്റ് നിർവചനങ്ങളെക്കാൾ എളുപ്പമാണ് ഇവിടെ നമ്മൾ പ്രശ്നം 1 എടുക്കുകയാണ് ഈ കേസിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നും ഭാഗിക ഡെറിവേറ്റീവുകൾ നിലനിൽക്കുന്നുണ്ടെന്നും നമ്മൾ കാണിക്കും പക്ഷേ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിളല്ല ഇതിന്റെ കാരണമെന്തെന്നാൽ ഭാഗികമായ ഡെറിവേറ്റീവുകളുടെ കണ്ടിന്യൂയിറ്റിയും നിലനിൽപ്പും ഡിഫറെൻഷ്യബിലിറ്റിക്ക് ആവശ്യമായ വ്യവസ്ഥകളാണ് അതുകൊണ്ട് ഈ രണ്ട് വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിളാണെന്ന് അവകാശപ്പെടാൻ കഴിയില്ല അപ്പോൾ ഇതൊരു ഉദാഹരണമാണ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നും ഭാഗിക ഡെറിവേറ്റീവുകളായ fx ഉം fy ഉം നിലനിൽക്കുന്നുണ്ടെന്നും പക്ഷേ ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ അല്ലെന്നും നമ്മൾ കാണിക്കും അപ്പോൾ ആദ്യമായി ഭാഗിക ഡെറിവേറ്റീവുകളുടെ നിലനിൽപ്പാണ് നമുക്ക് 00ൽ fx ന്റെ നിർവചനം അറിയാം മാത്രമല്ല 00 എന്നതിൽ ഇതിന്റെ നിലനിൽപ്പും കണ്ടിന്യൂയിറ്റിയും കാണിക്കുകയും ഈ ഒറിജിനിൽ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ അല്ലെന്നും സ്വാഭാവികമായി കാണിക്കും അപ്പോൾ നിർവചനമനുസരിച്ച് 00ൽ fx lim┬Δx→0fΔx 0 f0 0Δx എന്നായിരിക്കും fxyxy√x2y2 xy0 0 xy≠0 0 അപ്പോൾ ഇത് പൂജ്യമായിരിക്കും കാരണം ഇവിടെ xy യുടെ ഗുണനം കാണാം അപ്പോൾ f ലുള്ള വാദം പൂജ്യം ആണെന്നുള്ളതിനാൽ ഇത് ഈ ഫംഗ്ഷൻ പൂജ്യം ആക്കും മാത്രമല്ല f 00 പൂജ്യത്തിൽ വ്യത്യരിക്തമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ പൂജ്യവും മൈനസ് പൂജ്യവും ഉണ്ട് അപ്പോൾ ഇത് പൂജ്യമാവും ഇതും പൂജ്യം ആവും അതിനാൽ 0 0Δx ആവുമ്പോൾ നമുക്ക് ഈ 0 ലഭിക്കും അതിനാൽ സമാനമായി fy ക്ക് fy 0 0 f0 Δy f0 0 വീണ്ടും ഇവിടെയുള്ള x വാദം കാരണം ഇത് ഇവിടെ പൂജ്യമാണ് അപ്പോൾ ഇതിന്റെ ഫലം ഇത് വീണ്ടും പൂജ്യം ആവും മാത്രമല്ല ഇതും പൂജ്യമാണ് അപ്പോൾ 0 0 ആയതുകൊണ്ട് വീണ്ടും ഇതിന്റെ വാല്യൂ പൂജ്യം എന്ന് ലഭിക്കും fx 0 0lim┬Δx→0 ⁡〖fΔx 0 f0 0Δx〗0 fy 0 0lim┬Δy→0 ⁡〖f0 Δy f0 0Δy〗0 അപ്പോൾ ഇവിടെ നമുക്ക് 00 ൽ ഭാഗിക ഡെറിവേറ്റീവുകൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല fx ന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗിക ഡെറിവേറ്റീവിന്റെ വാല്യൂ പൂജ്യമാണ് കൂടാതെ 00 ൽ y ന്റെ അടിസ്ഥാനത്തിൽ ഭാഗിക ഡെറിവേറ്റീവിന്റെ വാല്യൂവും പൂജ്യമാണ് ഇനി ഇതിന്റെ കണ്ടിന്യൂയിറ്റിക്കായി നമ്മൾ മുമ്പ് പരിശോധിച്ചിട്ടുള്ള ഒരു ലളിതമായ ഫംഗ്ഷൻ ആണ് അപ്പോൾ നമുക്കിത് പോളാർ കോഡിനേറ്റ് ആയിട്ട് മാറ്റാം അതാണ് എളുപ്പം അപ്പോൾ x r cos⁡θ y r sin⁡θ എന്ന് അവിടെ പകരം ചേർക്കാം ലിമിറ്റ് r→0 എന്നും എടുക്കാം അപ്പോൾ നമ്മൾ ഇത് പകരം ചേർക്കുന്നു ഇവിടെ x r cos⁡θ y r sin⁡θ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ r√r2 എന്നും ലഭിക്കും അപ്പോൾ ഒരു r ഇല്ലാതെയാവും ഇവിടെ നമുക്ക് r ഉം cos⁡θsin⁡θ യും ഉണ്ട് r പൂജ്യത്തിലേക്ക് പോകുമ്പോൾ cos⁡θsin⁡θ പരിമിതപ്പെടും അപ്പോൾ ഇവിടെ ഈ ലിമിറ്റ് പൂജ്യത്തിലേക്ക് പോകും lim┬█x→0y→0⁡fxylim┬r→0⁡r cos⁡θ sin⁡θ0f0 0 മാത്രമല്ല 00 ൽ ഫങ്ക്ഷനും പൂജ്യമാണ് അപ്പോൾ 00 ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അതിനാൽ നമുക്ക് ഭാഗിക ഡെറിവേറ്റീവുകളുടെ നിലനിൽപ്പുണ്ട് ഫങ്ക്ഷണിന്റെ കണ്ടിന്യൂയിറ്റിയുമുണ്ട് ഇനി നമ്മൾ ഈ ഫങ്ക്ഷണിന്റെ ഡിഫറെൻഷ്യബിലിറ്റി പരിശോധിക്കാം അതിനാൽ ഈ ഫങ്ക്ഷണിന്റെ ഡിഫറൻഷ്യബിലിറ്റിക്കായി നമുക്ക് ഈ ലിമിറ്റിന്റെ നിർവചനത്തിലേക്ക് പോകേണ്ടതുണ്ട് കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് കൂടുതൽ എളുപ്പമായത് അപ്പോൾ ഇവിടെയുള്ള ലിമിറ്റ് Δz dzΔρ അപ്പോൾ Δz പോയിന്റ് 00 ലുള്ള x ലും y ലുമുള്ള ഇൻഗ്രിമെന്റ് ആണ് അതിനാൽ 0Δx 0Δy f00 ആണുള്ളത് അപ്പോൾ f00 പൂജ്യമാണ് ഇവിടെ നമുക്ക് fΔxΔy ഉണ്ട് അതിനാൽ ഈ xy Δx കൊണ്ടും Δy കൊണ്ടും മാറ്റിവെക്കപ്പെടും നമുക്ക് ഇവിടെ Δx Δy ഉണ്ട് √Δx2Δy2 ഉം ഉണ്ട് ഇനി z ൻറെ ഡിഫറെൻഷ്യലായ Δz എന്നത് Δx ന്റെ അടിസ്ഥാനത്തിലുള്ള ഭാഗിക ഡെറിവേറ്റീവും y ൻറെ അടിസ്ഥാനത്തിലുള്ള z ന്റെ ഭാഗിക ഡെറിവേറ്റീവും കൂട്ടിയതും പിന്നെയുള്ളത് Δy ഉം ആണ് Δzf0Δx 0Δy f0 0 Δx Δy√Δx2Δy2 അപ്പോൾ ഇവിടെയുള്ള ഈ രണ്ടും നമ്മൾ മുന്നേ കണ്ടതുപോലെ പൂജ്യമാണ് അതിനാൽ ഈ dz പദം നമുക്ക് പൂജ്യം എന്ന് ലഭിക്കും പിന്നെ ലിമിറ്റ് ΔzdzΔρ അപ്പോൾ ഈ Δz എന്നത് Δx Δy Δx2Δy2 എന്നതാണ് dz എന്നത് പൂജ്യവുമാണ് അപ്പോൾ ഈ Δx Δy യും Δρ√Δx2Δ2 എന്നും ഇവിടെ ഒരു സ്ക്വയർ റൂട്ടും ഉണ്ട് അതിനാൽ ഈ പദം സ്ക്വയർ റൂട്ട് ഇല്ലാതെ നമുക്ക് ലഭിക്കും ഇനി ഇതിന്റെ ലിമിറ്റ് കാണാം ഇനി ഇവിടെ ΔymΔx എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ ഇവിടെ വ്യക്തമായി കാണാം ഇവിടെ ഉള്ളത് ക്വാഡ്രാറ്റിക് പദമാണ് മാത്രമല്ല ഇതിൽ ഉള്ളതെല്ലാം ക്വാഡ്രാറ്റിക് ആണ് അതിനാൽ ΔymΔx എന്നുള്ള ഈ പ്രത്യേക ഭാഗം എടുക്കുകയാണെങ്കിൽ അതിന്റെ ലീനിയർ പാത Δx0 യിലേക്കും Δy0യിലേക്കും പോകുന്നതാണ് ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ΔymΔx എന്ന് ചേർക്കുമ്പോൾ ഇവിടെയും m2 Δx2 എന്നുള്ളതിൽ Δx2 ഇല്ലാതാവും നമുക്ക് കിട്ടുന്നത് m1m2 ആയിരിക്കും lim┬Δρ→0⁡Δz dzΔρ lim┬Δρ→0⁡Δx ΔyΔx2Δy2 Along the path Δym Δx lim┬Δρ→0⁡〖Δz dzΔρ〗m1m2 അതിനാൽ ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിളല്ല കാരണം ഈ ലിമിറ്റ് നിലനിൽക്കുന്നില്ല ലിമിറ്റ് ഈ പാതയെ ആശ്രയിക്കുന്നുണ്ട് അതിനാൽ ഈ ഫംഗ്ഷൻഡിഫറെൻഷ്യബിളല്ല അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിൽ നമ്മൾ കണ്ടെത്തിയത് എന്തെന്നാൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നും ഭാഗിക ഡെറിവേറ്റീവുകൾ നിലനിൽക്കുന്നുണ്ടെന്നും പക്ഷേ ഈ ഫംഗ്ഷൻ നിലനിൽക്കുന്നില്ലെന്നുമാണ് ഇതുപോലെയുള്ള മറ്റൊരു ഉദാഹരണത്തിൽ ഇവിടെയും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നും ഭാഗിക ഡെറിവേറ്റീവുകൾ നിലനിൽക്കുന്നുണ്ടെന്നും പക്ഷേ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ അല്ലെന്നുമാണ് അപ്പോൾ ഭാഗിക ഡെറിവേറ്റീവുകളുടെ നിലനിൽപ്പ് വീണ്ടും എളുപ്പമുള്ളതാണ് അപ്പോൾ x ന്റെ അടിസ്ഥാനത്തിലുള്ള ഭാഗിക ഡെറിവേറ്റീവിന്റെ നിർവചനം നമ്മുടെ അടുത്തുണ്ട് ഇവിടെ ഇനി y0 ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഈ Δx2 മേലെ Δx3 ലഭിക്കും ഇത് f 00 ആണ് ഈ Δx2 ഉം ഇവിടെയുണ്ട് അപ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് ഈ ലിമിറ്റ് 1 എന്ന് ലഭിക്കും കാരണം fΔx0 Δx3Δx2 ആയിരിക്കും കൂടാതെ ഈ നിർവചനത്തിൽ നിന്നും 1Δx ഉം അപ്പോൾ ഇത് 1 എന്നാവും fxy█x32y3x2y2 xy0 0 xy0 0┤ അപ്പോൾ ഈ ലിമിറ്റ് ഒന്നാണ് അതുപോലെ തന്നെയാണ് 00ൽ നമ്മൾ fy കണക്കു കൂട്ടുമ്പോഴും അപ്പോൾ ഇവിടെ x0 ഉള്ളിടത്ത് പൂജ്യം എന്ന 2Δy3 അതുപോലെ ഇവിടെ y Δy2 ആയും ഇവിടെയുള്ള Δy Δy3 ആയും മാറും അതിനാൽ ഈ Δy3 ഇല്ലാതാവുകയും നമുക്ക് ഇതിൻറെ ലിമിറ്റ് 2 എന്ന് ലഭിക്കുകയും ചെയ്യും അതിനാൽ x ൻറെ അടിസ്ഥാനത്തിലുള്ള ഭാഗിക ഡെറിവേറ്റീവ് 1ഉം y യുടെ അടിസ്ഥാനത്തിലുള്ള ഭാഗിക ഡെറിവേറ്റീവ് 2 ഉം ആവും fx 0 0lim┬Δx→0 ⁡〖fΔx 0 f0 0Δx1〗 fy 0 0lim┬Δy→0 ⁡〖f0 Δy f0 0Δy〗2 ഇനി ഈ ഫങ്ക്ഷന്റെ കണ്ടിന്യൂയിറ്റിയിലേക്ക് വരുമ്പോൾ വീണ്ടും ഇത് ലളിതമാണ് നമുക്ക് അതിന്റെ പോളാർ കോർഡിനേറ്റ് x rcos⁡θ y rsin⁡θ എന്നായി മാറ്റികൊണ്ട് കാണാവുന്നതാണ് അതുപോലെ ഈ പദം r2 പദം ആയിരിക്കുമെന്നും കാണാൻ എളുപ്പമാണ് കൂടാതെ അവിടെ നിന്നും r3 ഉം ലഭിക്കും അതിനാൽ ന്യൂമറേറ്ററിൽ ഒരു r ഉം കൂടെ cos3θ2sin3⁡θ എന്ന പരിമിതമായ ഫങ്ക്ഷനുമായിരിക്കും അതിനാൽ r പൂജ്യത്തിലേക്ക് പോകുമ്പോൾ ലിമിറ്റ് 0 ആവുന്നതാണ് lim┬█x→0 y→0 ⁡ x32y3x2y2 lim┬r→ 0⁡r3cos3⁡θ2r3 sin3⁡θr2 0 f00 അപ്പോൾ ഇവിടെ ലിമിറ്റ് 0 ഫംഗ്ഷൻവാല്യൂ0 അതിനാൽ ഈ ഫംഗ്ഷൻകണ്ടിന്യൂസ് ആണ് ഭാഗിക ഡെറിവേറ്റീവ് നിലനിൽക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ പോയിന്റിൽ ഈ ഫംഗ്ഷൻഡിഫറെൻഷ്യബിൾ അല്ലെന്ന് കാണിക്കുന്നതിലേക്ക് കടക്കാം അതിനായി നമുക്ക് ഈ ലിമിറ്റ് വീണ്ടും കാണിക്കേണ്ടതുണ്ട് അവിടെ Δz ആണ് ഡിഫറൻസ് അത് വീണ്ടും പൂജ്യമാണ് പിന്നെയുള്ളത് Δx ഉം Δy യുമാണ് അപ്പോൾ ഈ x y എന്നുള്ളത് Δx Δy പദങ്ങൾ കൊണ്ട് മാറ്റിനിർത്തപ്പെടും dz പദം ΔzΔx 001 ഇത് അവിടെ 2 ആയിരുന്നു അപ്പോൾ ഇവിടെ Δx2Δy ഇനി ഇതിന്റെ ലിമിറ്റ് വീണ്ടും എടുക്കുകയാണെങ്കിൽ മേലെ ഒന്നും ഇവിടെയുള്ളത് ρ ആണ് പിന്നെയുള്ളത് Δz അത് Δx22Δy2 ആണ് കൂടാതെ Δy2Δx2 മൈനസ് dz പദമായ Δx2Δy ഇത് ഒരാൾക്ക് എളുപ്പത്തിൽ Δx2 Δy2 എന്ന് ഈ ഡിനോമിനേറ്ററിൽ ചേർത്തുകൊണ്ട് ലളിതമാക്കാൻ ആവും അപ്പോൾ ഇവിടെയുള്ളത് Δx2 ഉം 2Δy2 ഉം മൈനസ് ഈ ഗുണനഫലവും അതിൽ നിന്ന് ലഭിക്കുന്നത് Δx3 ഒരു പദമായും 2Δx2 ഉം Δy പദവും ആണ് കൂടാതെ ഈ Δy2 ഉം Δx പദവും 2Δy3 പദവും ലഭിക്കും ഇത് 2Δy3 ആണ് അപ്പോൾ ഇവിടെയും ഈ ക്യൂബ് അതായത് Δx3 ഇല്ലാതെയാവും 2Δy3 ഉം ഇല്ലാതെയാവും പിന്നെ നമുക്ക് ഈ 2 പദങ്ങൾ Δy2 ഉം x2 ഉം മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ മൈനസ് ഇവിടെ 2 തവണ ലഭിക്കും ഈ Δx2 ഉം Δy അവിടെയും കൂടെ Δx ഉം Δy2 ഉം Δx2Δy2 ന്റെ കൂടെ അതിന്റെ പവർ 32 എന്നും നമുക്ക് ലഭിക്കും lim┬Δρ→0⁡〖1√Δx2Δy2 Δx32Δy3Δx2Δy2 Δx2 Δy 〖lim〗┬Δρ→0 Δx Δy2 2Δx2 Δy〖Δx2〖Δy2 32 ഇനി ഈ ΔymΔx എന്ന പാത എടുക്കുകയാണെങ്കിൽ അപ്പോൾ വീണ്ടും ഇതേ സാഹചര്യമാണ് അപ്പോൾ ഇവിടെ നമുക്ക് Δx3 പൊതുവായിട്ടുണ്ട് ഇവിടെയും Δx3 പൊതുവായിട്ടുള്ളതായി കിട്ടും ഒപ്പം Δy2 എന്നത് m2Δx2 എന്നായി മാറുകയും ചെയ്യും Along the path Δym Δx 1m2 32 അപ്പോൾ ഇതാണ് പവർ 32 ഇവിടെയുള്ള Δx3 പൊതുവായിട്ടെടുക്കാം അപ്പോൾ Δx3 എല്ലായിടത്തും ഇല്ലാതാവുകയും ഇവിടെ ലിമിറ്റ് m2 m എന്നും ഇവിടെ 1m232 എന്നും ലഭിക്കും അപ്പോൾ ഇതായിരിക്കും പാത്ത് ഡിപെൻഡന്റ് ലിമിറ്റ് നമുക്ക് ലിമിറ്റിന് വേറൊരു സംഖ്യ ഉണ്ട് അതിനാൽ ഈ ലിമിറ്റ് നിലനിൽക്കുന്നില്ല അങ്ങനെ വീണ്ടും ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിളല്ല അടുത്ത പ്രശ്നത്തിൽ നമ്മൾ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെന്ന് കാണിക്കും പക്ഷേ fx fy എന്നീ ഭാഗിക ഡെറിവേറ്റീവുകൾ കണ്ടിന്യൂസ് ആയിരിക്കില്ല ഭാഗിക ഡെറിവേറ്റീവുകളുടെ കണ്ടിന്യൂയിറ്റി ഈ ഡിഫറെൻഷ്യബിലിറ്റിക്ക് പര്യാപ്തമാണെന്ന് ഓർക്കുക അതിനാൽ ഫംഗ്ഷൻചിലപ്പോൾ ഡിഫറെൻഷ്യബിൾ ആവാം പക്ഷേ fx ഉം fy യും കണ്ടിന്യൂസ് ആയിരിക്കില്ല fx ഉം fy യും കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് തെളിയിക്കാനായാൽ അത് ലളിതമായി സൂചിപ്പിക്കുന്നത് ഫംഗ്ഷൻഡിഫറെൻഷ്യബിൾ ആണെന്നാണ് പക്ഷേ fx ന്റെയും fy യുടെയും കണ്ടിന്യൂയിറ്റി തെളിയിക്കാനായില്ലെങ്കിൽ നമുക്ക് ഡിഫറെൻഷ്യബിലിറ്റിയെ കുറിച്ച് ഒന്നും തീരുമാനിക്കാനാവില്ല fxyx2y2 cos⁡1√x2y2 xy0 00 xy0 0┤ അതിനാൽ ഇവിടെയുള്ള ഉദാഹരണം ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ fx ഉം fy യും കണ്ടിന്യൂസ് അല്ല അതിനാൽ ഭാഗിക ഡെറിവേറ്റീവുകളുടെ നിലനിൽപ്പ് കാണിക്കണം കാരണം ഡിഫറെൻഷ്യബിലിറ്റിക്ക് വേണ്ടതായിട്ടുള്ള അനിവാര്യമായ നിബന്ധനകളെല്ലാം നിറവേറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണിക്കണം ഏതെങ്കിലും ഒരു അനിവാര്യ നിബന്ധന ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ അല്ലെന്ന് വാദിക്കാവുന്നതാണ് അതിനാൽ ഭാഗിക ഡെറിവേറ്റീവുകളുടെ നിലനിൽപ്പ് ഇവിടെ വീണ്ടും നമുക്ക് fΔx 0 f0 0Δx എന്ന നിർവചനം ഉണ്ട് ഈ കേസിൽ നമുക്ക് ഇത് പൂജ്യം ആണെന്ന് പറയാം കാരണം ഇവിടെ f Δx ആണ് അപ്പോൾ ഈ Δy0 ഉം Δx ഉം ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ Δx2 ലഭിക്കും കൂടാതെ ഇവിടെ കോസ്റ്റ് ടെം 1√Δx2 ഉം ഇത് ഇവിടെയുള്ള Δx പദം കൊണ്ട് ഹരിക്കുകയും ഇത് പൂജ്യവുമാണ് അതിനാൽ ഇത് ഇല്ലാതെയായി പോകും ഇവിടെ ചിലത് പരിമിതമാണ് ഒപ്പം Δx→0 അതിനാൽ ഈ ലിമിറ്റ് പൂജ്യമായിരിക്കും fx 0 0lim┬Δx→0 ⁡〖fΔx 0 f0 0Δx0〗 fy 0 0lim┬Δy→0 ⁡〖f0 Δy f0 0Δy〗0 സമാനമായി 00ൽ f y പൂജ്യമാണെന്ന് നമുക്ക് കാണിക്കാനാകും കാരണം ഈ ഫംഗ്ഷൻ എന്തായാലും അനുരൂപമായതാണ് അപ്പോൾ ഇത് വീണ്ടും പൂജ്യമായി ലഭിക്കും ഇനി ഈ ഫങ്ക്ഷന്റെ കണ്ടിന്യൂയിറ്റി പരിശോധിച്ചാലും വീണ്ടും പൂജ്യം ലഭിക്കും കാരണം x y 00ലേക്ക് പോകുമ്പോൾ പൂജ്യത്തിലേക്ക് പോകും അതിനാൽ വീണ്ടും പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റി കൊണ്ട് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇവിടെയുള്ളത് നമുക്ക് r2 എന്ന് ലഭിക്കും ബാക്കിയുള്ളതെല്ലാം പരിമിതമായിട്ടുണ്ടാവും ഒപ്പം r പൂജ്യത്തിലേക്ക് പോകുന്നതു കൊണ്ട് ഇതും പൂജ്യമായിരിക്കും അത് ഒന്നുകിൽ പോളാർ കോർഡിനേറ്റിലേക്ക് മാറുന്നത് കാണിച്ചു കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ x y പൂജ്യത്തിലേക്ക് പോകുമ്പോൾ നേരെ കാണിച്ചു കൊണ്ടാ ആണ് lim┬█x→0 y→0 ⁡〖x2y2 cos⁡1√x2y2 〗0 f0 0 അപ്പോൾ ഈ പദം പൂജ്യത്തിലേക്ക് പോകും ഇത് പരിമിതമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇവിടെ നേരിട്ട് ലിമിറ്റ് പൂജ്യം ആണെന്ന് നമുക്ക് ലഭിക്കും അത് പോയിന്റ് 0 0ൽ ഉള്ള ഫംഗ്ഷൻ വാല്യൂ ആണ് അപ്പോൾ ഇവിടെ മറ്റുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഡിഫറെൻഷ്യബിലിറ്റിയിലേക്ക് വരുകയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഇവിടെ ഈ Δz ൽ നേരെ നിർവചനമെടുക്കും ഞാൻ ഉദ്ദേശിച്ചത് Δz ൽ z ൻറെ വ്യതിയാനം എടുക്കും അതിനാൽ f 0Δx 0Δy f0 0 f0 0 പൂജ്യമാണ് ഒപ്പം ഇവിടെ Δx ഉം Δy യും ഉണ്ട് അതിനാൽ x y എന്നിവ Δx Δy പദങ്ങളാൽ പകരം വെക്കപ്പെടും അപ്പോൾ ഭാഗിക ഡെറിവേറ്റീവായ ഈ dz x ൽ പൂജ്യവും ഭാഗിക ഡെറിവേറ്റീവായ z yൽ പൂജ്യവുമാണ് ഈ മൂല്യങ്ങളെല്ലാം 0 ആണെന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതിനാൽ ഈ dz പൂജ്യമാണ് ഇനി ഇവിടെയുള്ള കോഷ്യന്റ് ശേഷം നമ്മൾ ലിമിറ്റ് എടുക്കും Δzf0Δx 0Δy f0 0 Δx2Δy2 cos⁡1√Δx2Δy2 അതിനാൽ Δz ആയി ഇവിടെ തന്നിട്ടുള്ളത് Δx2 ഉം Δy2 cos പദവും മൈനസ് പൂജ്യവും ആണ് കൂടാതെ ഈ Δρ √Δx2Δy2 ആണ് അതിനാൽ ഇവിടെയുള്ള ലിമിറ്റ് എന്താണെന്ന് നമുക്ക് കാണാനാകും ഇത് ഇല്ലാതാവുകയും ചെയ്യും അപ്പോൾ ന്യൂമറേറ്ററിലുള്ളത് ഈ പദത്തിനു മേലിലുള്ള cos 1 ന്റെ സ്ക്വയർ റൂട്ട് പദമാണ് ഇനി ഈ പദത്തിൽ ലിമിറ്റ് Δx പൂജ്യത്തിലേക്ക് പോകുമ്പോൾ Δy പൂജ്യത്തിലേക്ക് പോകുമെന്നത് എളുപ്പത്തിൽ കാണാം കാരണം ഈ പദം പൂജ്യത്തിലേക്ക് പോവുകയും പരിമിതമായ ഒന്ന് കൂടെ ഇരിക്കുന്നുമുണ്ട് അതിനാൽ നേരിട്ട് നമുക്ക് ഇതിന്റെ മൂല്യം പൂജ്യമാണെന്ന് കാണിക്കാനാകും lim┬Δρ→0⁡〖Δz dzΔρ〗〖lim〗┬█Δx→0Δy→0⁡〖Δx2Δy2 √Δx2Δy2 cos⁡1√Δx2Δy2 〗 lim┬█Δx→0Δy→0⁡〖√Δx2Δy2 cos⁡1√Δx2Δy2 〗0 ഇതിനർത്ഥം ലിമിറ്റ് 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണ് അതിനാൽ ഈ കേസിൽ ഇവിടെ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കാണിക്കാനുള്ളതെന്തെന്നാൽ ഇനി നമ്മൾ ഭാഗിക ഡെറിവേറ്റീവുകളുടെ കണ്ടിന്യൂയിറ്റിയിലേക്ക് പോവുകയും ഈ കേസിൽ ഭാഗിക ഡെറിവേറ്റീവുകൾ കണ്ടിന്യൂസ് അല്ല എന്നും നമ്മൾ കാണിക്കും fx ന്റെയും fy യുടെയും കണ്ടിന്യൂയിറ്റി തെളിയിക്കുന്നതിന് നമുക്ക് ആരംഭ പോയിന്റിലല്ലാത്ത fx ഉം fy ഉം കിട്ടേണ്ടതുണ്ട് ഇവിടെ ഇത് പൂജ്യത്തിന് തുല്യമല്ല പൂജ്യത്തിന് തുല്യം ആവുമ്പോൾ അവിടെ 00 ആയിരിക്കും ഇവിടെയും ഇതേ പിഴവ് ആയിരിക്കും ഉള്ളത് ഇവിടെ 00ൽ ഈ ഫംഗ്ഷൻപൂജ്യമാണെന്നും xy0 ആയപ്പോഴും നമുക്ക് പൂജ്യം ലഭിച്ചു അപ്പോൾ ഇത് പൂജ്യത്തിനു തുല്യമല്ല x y പൂജ്യം ആകുമ്പോൾ ഇത് പൂജ്യം ആവും ഇനി 00 പോയിന്റിൽ ഭാഗിക ഡെറിവേറ്റീവുകളുടെ കണ്ടിന്യൂയിറ്റി നമ്മൾ കാണിക്കും അതിന് നമുക്ക് 0 പോയിന്റിൽ അല്ലാത്ത ഭാഗിക ഡെറിവേറ്റീവിന്റെ കണ്ടിന്യൂയിറ്റി കണക്ക് കൂട്ടേണ്ടതുണ്ട് ആരംഭ പോയിന്റിൽ അല്ലാത്ത ഭാഗിക ഡെറിവേറ്റീവുകൾ നമുക്ക് കണക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട് 00 ൽ fx ഉം fy യും നമ്മൾ മുൻപ് കണക്ക് കൂട്ടിയപ്പോൾ കിട്ടിയ ഫലം പൂജ്യമായിരുന്നു അതിനാൽ ആരംഭ പോയിന്റിൽ അല്ലാത്ത ഈ ഫംഗ്ഷന്റെ ഭാഗിക ഡെറിവേറ്റീവ് ലഭിക്കാൻ ഈ ഫങ്ക്ഷണിന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻറ് ആക്കി എടുത്ത് x ൻറെ അടിസ്ഥാനത്തിൽ നേരിട്ട് എടുക്കാം അതിനാൽ 00 പോയിന്റിന് തുല്യമല്ലാത്ത xy ൽ y കോൺസ്റ്റൻറ് ആക്കി എടുത്താൽ ഇതിന്റെ നേരിട്ടുള്ള ഡിഫറെൻഷിയേഷൻ മുഖേന ഇതിന്റെ ഡെറിവേറ്റീവ് ലഭിക്കുന്നതാണ് അതിനാൽ ഇതൊരു പ്രോഡക്റ്റ് ടൂൾ ആണ് അതിനാൽ ഈ x2 y2 പദത്തിൽ ഈ cos മൈനസ് ചിഹ്നത്തോടു കൂടെയായിരിക്കും √x2y2 ന് മേലെയുള്ള 1 ഈ പദത്തിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും അത് 12 2xx2y232 ആണ് ഇതിന്റെ കോസ് ഇവിടെ മാറ്റമില്ലാതെ തുടരും ഈ പദത്തിന്റെ ഡെറിവേറ്റീവ് 2x ആയിരിക്കും At xy≠00 fx xy x2y2 sin⁡1√x2y2 12 2xx2y2 32 2x cos⁡1√x2y2 sin⁡1√x2y2 x√x2y2 2x cos⁡1√x2y2 അപ്പോൾ ഇത് പോയന്റ് xy ൽ x നെ സംബന്ധിച്ചുള്ള ഫംഗ്ഷന്റെ ഭാഗിക ഡെറിവേറ്റീവ് ആണ് അത് 00ക്ക് തുല്യമല്ല ഈ ഒരു പദം നമുക്ക് ലഘൂകരിക്കാം അപ്പോൾ നമുക്ക് x2y2ന്റെ sin എന്നത് ലഭിക്കും ഈ പദം പിന്നീട് xx√x2 y2 2x cos⁡1√x2y2 എന്നും ലഭിക്കും ഇനി ഇവിടെ x ആക്സിസിൽ ഉള്ള പാത എടുക്കുകയാണെങ്കിൽ അതിനർത്ഥം Δy പൂജ്യമാവും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ 00ത്തെ സമീപിക്കുകയാണ് നമുക്ക് fx xy പൂജ്യത്തിലേക്ക് പോകുമ്പോൾ 00 പോയന്റിൽ f ൻറെ ഭാഗിക ഡെറിവേറ്റീവിന് അതവിടെ പൂജ്യമായിരുന്നു അതിനു തുല്യം ആവുമോ എന്ന് നമുക്ക് കാണേണ്ടതുണ്ട് അപ്പോൾ x ആക്സിസിലൂടെ ഒറിജിന്റെ സമീപത്തേക്ക് നീങ്ങുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക ഈ y ഇപ്പോൾ പൂജ്യമാണ് അപ്പോൾ ഇവിടെ നമുക്ക് x ഉണ്ട് പിന്നെ അത് x ന്റെ കേവല സംഖ്യയായ √x2 നാൽ ഹരിക്കപെട്ടിട്ടുള്ളതും ആണ് പിന്നെ ഇവിടെ 1 ഹരിക്കണം x2xന്റെ sin ഉണ്ട് പിന്നെ 1 ബൈ xന്റെ കേവലം വിലയുടെ cos ഉം ഉണ്ട് അപ്പോൾ ഇത് x ആക്സിസിന് നെറുകയിലൂടെയാണ് അതായത് y0 അപ്പോൾ നമ്മൾ ഇവിടെ y പൂജ്യം ആയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ x ആക്സിസിലൂടെയുള്ള ഒരു നിശ്ചിത പാതയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടെ കണ്ടെത്തുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇതിൽ നമ്മൾ x ൽ നിന്ന് പൂജ്യത്തിലേക്ക് വലതുവശത്തു നിന്ന് പോകുമ്പോൾ ഇത് 1 ആണ് x പൂജ്യത്തിലേക്ക് നെഗറ്റീവ് വശത്തുനിന്ന് പോകുമ്പോൾ ഇത് 1 ആകുന്നു ഇനി ഏതു കേസിലാണെങ്കിലും ഇത് നിശ്ചിതമായിരിക്കില്ല ഇതു പോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഈ x പൂജ്യത്തിലേക്ക് പോകുന്നു അപ്പോൾ ഇത് പരിമിതമാണ് അപ്പോൾ ഇത് ഇല്ലാതായി പൂജ്യത്തിലേക്ക് പോകുന്നതാണ് Along x axis lim┬x→0⁡〖fx xy〗lim┬x→0 x|x| sin⁡1|x| 2x cos1|x| ≠0 പക്ഷേ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഇത് 1 ആണ് മാത്രമല്ല ഇത് ആ കേസിൽ അനിശ്ചിതമായ ഒന്നാണ് അത് വേണേൽ 1ഉം ആവാം അപ്പോൾ ഇവിടെ x പൂജ്യത്തിലേക്ക് പോകുമ്പോഴുള്ള മൂല്യം എന്താണെന്നറിയില്ല അപ്പോൾ ഈ ലിമിറ്റ് നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൂജ്യത്തിനു തുല്യമല്ല അത് നമ്മൾ ഈ ലിമിറ്റിനു വേണ്ടി തേടുകയായിരുന്നു ഈ ലിമിറ്റ് 0 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ fx ന്റെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസാണെന്ന് വാദിക്കാം കാരണം 00 പോയിന്റിലുള്ള ഡെറിവേറ്റീവിന്റെ മൂല്യം ഇതായിരുന്നു 00 പോയന്റിൽ ഉള്ള fx ഇതായിരുന്നു അപ്പോൾ ഏത് സാഹചര്യത്തിലും ഇത് ഇതിനോട് തുല്യമാവില്ല വാസ്തവത്തിൽ ഈ ലിമിറ്റ് നിലനിൽക്കുന്നില്ല അതിനാൽ ഈ ഭാഗിക ഡെറിവേറ്റീവിന്റെ കണ്ടിന്യൂയിറ്റിയെക്കുറിച്ച് ഒരു ചോദ്യവും ഇല്ല അതിനാൽ ഈ fx കണ്ടിന്യൂസ് അല്ല ഈ ഫംഗ്ഷൻ ഇപ്പോൾ അനുരൂപ്യമായതിനാൽ സമാനമായി നമുക്ക് കാണിക്കാം അതിനാൽ fy കണ്ടിന്യൂസ് അല്ല എന്നുള്ളതും കാണിക്കാം അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിൽ ഭാഗിക ഡെറിവേറ്റീവുകൾ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെങ്കിൽ പോലും കണ്ടിന്യൂസ് അല്ലെന്ന് നമ്മൾ കണ്ടെത്തി അപ്പോൾ ഈ ഉദാഹരണം സൂചിപ്പിക്കുന്നത് ഭാഗിക ഡെറിവേറ്റീവുകളുടെ കണ്ടിന്യൂയിറ്റി ഡിഫറെൻഷ്യബിലിറ്റിക്ക് ആവശ്യമായ നിബന്ധനയല്ല എന്നതാണ് ഒരു ഫംഗ്ഷൻ ഫസ്റ്റ് ഓർഡർ ഭാഗിക ഡെറിവേറ്റീവും കണ്ടിന്യൂസ് അല്ലാതെയും ഡിഫറെൻഷ്യബിൾ ആവാൻ കഴിയും ഇതുപോലെയുള്ള മറ്റൊരു ഉദാഹരണം വഴിയും ഒരാൾക്ക് വീണ്ടും ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെന്നും fx ഉം fy ഉം കണ്ടിന്യൂസ് അല്ലെന്നും കാണിക്കാനാവുന്നതാണ് ഇത് നമ്മൾ നിങ്ങൾക്ക് വിട്ടു തരികയാണ് ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെന്ന് നമ്മൾ കാണിക്കുന്നില്ല പക്ഷേ fx ഉം fy ഉം കണ്ടിന്യൂസ് അല്ല പക്ഷേ ഇത് ചെയ്യുന്ന രീതി മുമ്പത്തെ പ്രശ്നത്തിന് സമാനമാണ് മാത്രമല്ല ഒരാൾക്ക് fx ഉം fy ഉം കണ്ടിന്യൂസ് അല്ലെന്ന് ഈയൊരു പ്രശ്നത്തിലും എളുപ്പത്തിൽ കാണിക്കാനാകും ഇനി അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടത് ഡിഫറെൻഷ്യബിലിറ്റിക്ക് തുല്യമായ ഒരു നിർവചനം ഇവിടെ നമ്മൾ ലിമിറ്റിൽ കണ്ടു ലിമിറ്റ് പൂജ്യം ആണെന്ന് കാണിക്കുന്നത് ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെന്ന് പറയുന്നതിന് തുല്യമാണ് അപ്പോൾ ഇത് ഫംഗ്ഷന്റെ ഡിഫറെൻഷ്യബിലിറ്റി പരിശോധിക്കാൻ ഉപകാരപ്രദമാണ് ഇവിടെ ഭാഗിക ഡെറിവേറ്റീവ് നിലനിൽക്കുന്ന ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആയിരിക്കില്ല കാരണം ഭാഗിക ഡെറിവേറ്റീവുകളുടെ നിലനിൽപ്പ് ഡിഫറെൻഷ്യബിലിറ്റിക്കുള്ള ഒരു പര്യാപ്തമായ നിബന്ധനയാണ് അത് അനിവാര്യമായതല്ല മാത്രമല്ല നമ്മൾ fx ഉം fy ഉം കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആവാം എന്നും കണ്ടു അപ്പോൾ ഇതും പര്യാപ്തമായ നിബന്ധനയാണ് ഇതെല്ലാമാണ് ഈ ലക്ച്ചറുകൾ തയ്യാറാക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ള റഫറൻസുകൾ